ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ II പാർട്ട് 6 ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളിൽ നമ്മൾ മൊഡ്യൂൾ നമ്പർ 4 ലും പ്രഭാഷണ നമ്പർ 36 ലും module number 4 lecture number 36 ആണുള്ളത് ലൈൻ പ്രൊജക്ഷനുകളിൽ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്യുന്നു നമുക്ക് ആരംഭിക്കാം മൂന്നാമത്തെ ഉദാഹരണം 75 മില്ലീമീറ്റർ നീളമുള്ള CD എന്ന രേഖയുടെ ഒരു ടോപ്പ് വ്യൂ ഉണ്ട് അത് 50 മില്ലീമീറ്റർ അളവ് കാണിക്കുന്നു അതിന്റെ വശം C തിരശ്ചീന തലത്തിലും ലംബ തലത്തിന് മുന്നിൽ 50 മില്ലീമീറ്ററിലുമാണ് വശം D VPക്ക് മുന്നിൽ 55 മില്ലിമീറ്ററാണ് അത് HP പ്ലെയിനിന് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ CD യുടെ പ്രൊജക്ഷനുകൾ വരച്ച് തിരശ്ചീന തലം ലംബ തലം എന്നിവയും ആയുള്ള ആംഗിൾ കണ്ടെത്തുക നമുക്ക് പരിഹാരം നോക്കാം അതിനാൽ ഇവിടെ XY പ്ലെയിനുകൾ ആദ്യം നിർമ്മിക്കേണ്ടതുണ്ട് വശം C തിരശ്ചീന തലത്തിൽ horizontal plane0 ഉള്ളതായി നമുക്ക് കാണാം അതിനാൽ തിരശ്ചീന തലത്തിൽ ആയിരിക്കുമ്പോൾ പ്രൊജക്ഷനുകൾ നമ്മൾ അത് കാണുകയാണെങ്കിൽ അത് XY അക്ഷത്തിൽ ആയിരിക്കും അതിനാൽ ഈ പ്രൊജക്ഷനുകളിലൊന്ന് ആ പോയിന്റിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ c' കണ്ടെത്തേണ്ടതുണ്ട് അത് XY യിൽ തിരശ്ചീന തലത്തിലും XY തലത്തിൻറെ 50 മില്ലീമീറ്ററിൽ താഴെയുമാണ് കാരണം അതിന്റെ വശം c തിരശ്ചീന തലത്തിലും ലംബ തലത്തിന് 50 മില്ലീമീറ്റർ മുന്നിലും ആണ് അതിനാൽ 3 D പിക്റ്റോറിയൽ വ്യൂ യിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലൈൻ ഉള്ളപ്പോൾ ഇത് തിരശ്ചീന തലം ആണെങ്കിൽ ലംബ തലത്തിന് 50 മില്ലിമീറ്റർ മുന്നിൽ നമ്മുടെ ലൈൻ പോയിന്റ് C യിൽ ആരംഭിക്കുന്നു അത് ഏകദേശം 50 മില്ലീമീറ്റർ ആണ് ഇത് ഈ പ്ലെയിനിൽ ആണ് അതിനാൽ ആ പോയിന്റ് c കണ്ടെത്തുക ഈ പോയിന്റുകളിൽ നിന്ന് ലോക്കസ് വരയ്ക്കുക അതിനാൽ നമുക്ക് രണ്ട് പോയിന്റുകളുണ്ട് cc ഇതാണ് ലോക്കസ് ലൈൻ മറ്റൊരു ലോക്കസ് ലൈൻ 15 മില്ലീമീറ്റർ വരയ്ക്കുക കാരണം ഈ വശം D ലംബ തലത്തിന് മുന്നിൽ 15 മില്ലീമീറ്ററാണ് അതിനാൽ ലംബ തലത്തിൽ നിന്ന് അത് ഇവിടെയാണോ ഇവിടെയാണോ അങ്ങനെ എവിടെയാണോ എന്ന് നമുക്കറിയില്ല ഈ പോയിന്റ് 15 മില്ലീമീറ്ററാണ് അതിനാൽ c 50 മില്ലീമീറ്ററായതിനാൽ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ d അൽപ്പം അടുത്താണ് അതിനാൽ അത് ആ പോയിൻറ്ലാണ് അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും തിരിച്ചറിയാൻ നമ്മൾ ഒരു ലോക്കസ് കണ്ടെത്തുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ c യിൽ നിന്ന് ലോക്കസ് d യിൽ 50 മില്ലീമീറ്ററും 75 മില്ലീമീറ്ററും നീളം എടുക്കണം ഇത് പോയിന്റ് c 50 mm 75 mm കട്ട് എന്നിവ എടുത്തു കട്ട് ചെയ്യുക കാരണം വശം c HP യിലും ലംബ തലത്തിന് 50 മില്ലിമീറ്റർ മുന്നിലുമാണ് അതിനാൽ ഇത് കട്ട് ചെയ്യുന്നതിലൂടെ d കണ്ടെത്തുന്നതിനു സാധിക്കുന്നു d1 കണ്ടെത്തുന്നതിനു d 1 ൽ നിന്ന് മുകളിലേക്ക് ലംബ രേഖ വരച്ച് പ്രൊജക്റ്റ് ചെയ്തു അത് പോയിന്റ് 6 ആണ് അവിടെ നിന്ന് ഈ പ്രൊജക്റ്റ് ചെയ്ത LFVയിലേക്ക് c അളന്ന് ഒരു ആർക്ക് വരയ്ക്കുക ഒരു ആർക്ക് വരയ്ക്കുക അത് അവിടേയ്ക്ക് നീട്ടി വരയ്ക്കുക നമ്മൾ ഇതിനകം d പോയിന്റ് കണ്ടെത്തി അവിടെനിന്ന് ഒരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക അത് കട്ട് ചെയ്യുന്നിടത്ത് d ലഭിക്കുന്നു d അറിഞ്ഞുകഴിഞ്ഞാൽ c' d' എന്നിവ യോജിപ്പിക്കുക അത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും d' അറിയാമെങ്കിൽ ഒരു പ്രൊജക്ടർ ലോക്കസ് വരയ്ക്കുക c മുതൽ d1 വരെയാണ് നമ്മുടെ യഥാർത്ഥ നീളം അതിനാൽ c d1 അളക്കുകയും c'ൽ നിന്ന് ലോക്കസിലേക്ക് ഒരു കട്ട് ഉണ്ടാക്കുകയും ചെയ്യുക അതിനെ d'1 എന്ന് നാമകരണം ചെയ്യാം ഇങ്ങനെയാണ് നമ്മുടെ ഡയഗ്രം നിർമ്മിക്കുന്നത് അതിനാൽ ഇത് വീണ്ടും യഥാർത്ഥ നീളമായി മാറുന്നു ഈ ആംഗിൾ യഥാർഥ ആംഗിൾ ആണ് അതുപോലെ തന്നെ തിരശ്ചീന അക്ഷത്തോടു c d 1 എന്ന രേഖ ആംഗിൾ ഏതായാലും അത് യഥാർത്ഥ ആംഗിൾ ഫൈ ഉണ്ടാക്കുന്നു അതിനാൽ ഇവിടെ അജ്ഞാതമായത് CD യുടെ പ്രൊജക്ഷനുകളാണ് അത് നമ്മുടെ ഫ്രണ്ട് വ്യൂയും ടോപ് വ്യൂയും ആണ് തിരശ്ചീന തലം ലംബ തലം എന്നിവയുള്ള ആംഗിളും അജ്ഞാതമായ കാര്യങ്ങളാണ് അതിനാൽ നമുക്ക് ഇത് വീണ്ടും ഷീറ്റിൽ ചെയ്യാം അതിനാൽ ആദ്യം ഡ്രോയിംഗ് ഷീറ്റിൽ നമ്മൾ ഒരു തിരശ്ചീന രേഖ XY വരയ്ക്കണം ഇതിന് x ആക്സിസ് y ആക്സിസ് എന്ന് പേരിടുക ഈ പ്രൊജക്റ്റർ കണ്ടെത്താൻ ഒരു ലംബ രേഖ വരയ്ക്കുക ഇതാണ് പ്രൊജക്ടർ നമ്മുടെ c' ഇതിനകം X ആക്സിസിലാണ് XY ആക്സിസ് അതിനാൽ c c ആ ലൈനിന് 50 മില്ലീമീറ്റർ താഴെയാണ് അല്ലെങ്കിൽ ലംബ തലത്തിനു മുന്നിൽ 50 മില്ലീമീറ്റർ കണ്ടെത്തുക ഇത് c ഈ രീതിയിൽ ഈ പ്ലെയിനുകളിൽ നിന്ന് ലോക്കസ് വരയ്ക്കുക അതുപോലെ തന്നെ XY അക്ഷത്തിന് താഴെ 15 മില്ലീമീറ്റർ ലോക്കസ് ലൈൻ വരയ്ക്കുക ഇതാണ് ലൈൻ ആക്സിസ് ഇത് കണ്ടെത്താനുള്ള സ്ഥാനത്ത് ആയിരിക്കും d അല്ലെങ്കിൽ d' ഈ ലെവലിൽ ആയിരിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ 50 മില്ലീമീറ്റർ കട്ട് ചെയ്യുക അതിനാൽ d രേഖകൾ കണ്ടെത്താൻ നമുക്ക് 50 മില്ലീമീറ്റർ അളക്കാം അതിനാൽ ഇത് 50 മില്ലീമീറ്ററാണ് അതിനാൽ c യിൽ നിന്ന് ഒരു കട്ട് ഉണ്ടാക്കണം 75 മില്ലീമീറ്റർ നമ്മൾ കണ്ടെത്തണം അതിനാൽ ഈ പോയിന്റ് നമുക്ക് d1 എന്ന് വിളിക്കാം ഈ പോയിന്റുകൾ യോജിപ്പിക്കുക c d എന്നത് നമ്മുടെ ടോപ്പ് വ്യൂ ലൈനാണ് നമ്മൾ c ഇൽ നിന്ന് d 1 യോജിപ്പിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ യഥാർത്ഥ ദൈർഘ്യം നൽകുന്നു ഇപ്പോൾ ആ ലംബ തലത്തിൽ ടോപ് വ്യൂയും യഥാർത്ഥ നീളവും കണ്ടെത്താൻ പ്രൊജക്ടറുകൾ വരയ്ക്കുക അതിനാൽ ഇത് ഒരു പ്രൊജക്ടറാണ് ഇത് മറ്റൊരു പ്രൊജക്ടറാണ് ഇത് ഈ രേഖയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രൊജക്ടറായിരിക്കണം ഇതാണ് ലൈൻ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ആംഗിൾ ആണ് നമ്മൾ അളക്കുന്നത് നമുക്ക് ഫൈ എന്ന് വിളിക്കാം ഇത് യഥാർത്ഥ നീളമാണ് ഇതാണ് ടോപ് വ്യൂ ഇപ്പോൾ നമ്മൾ d 1 ആക്സിസ് XY ലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഈ വ്യൂ നിർമ്മിക്കുന്നതിന് നമ്മൾ അത് തിരിക്കണം അതിനാൽ നമുക്ക് ഈ രേഖ അളക്കാം നമുക്ക് ഇതിനകം തന്നെ യഥാർത്ഥ നീളം അറിയാം അതിലൂടെ കടന്നുപോകുന്ന ഒരു ആർക്ക് വരയ്ക്കാം അതിനാൽ ഈ അക്ഷത്തിൽ യഥാർത്ഥ നീളം കണ്ടെത്തുക ഇത് എവിടെയെങ്കിലും വരുന്നതാണ് ലോക്കസ് വരച്ചതിനുശേഷം നമ്മൾ അത് കണ്ടെത്തുന്ന അവസ്ഥയിലായിരിക്കും ഇപ്പോൾ d യുടെ ലോക്കസ് ഇതാണ് d പ്രൊജക്ടർ ലൈനുകൾ കൂടാതെ c മുതൽ ഈ രേഖയിൽ യോജിപ്പിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഫ്രണ്ട് വ്യൂ ലഭിച്ചുകഴിഞ്ഞാൽ ലോക്കസ് ലൈൻ a d' എന്നിവയിലൂടെ കടന്നുപോകുന്നു ഈ ദൈർഘ്യം ഇവിടെ നിന്ന് അവിടേക്ക് മാറ്റിയത് ആ അക്ഷത്തിൽ നമ്മൾ അത് കൈമാറുന്നു അത് അവിടെ കട്ട് ചെയ്യുന്നു നമുക്ക് d 1 എന്ന് വിളിക്കാം വീണ്ടും ആ ലംബ തലത്തിലെ പ്രൊജക്ട് ചെയ്ത നമ്മുടെ യഥാർത്ഥ നീളം ഇതാണ് ഈ ആംഗിൾ തീറ്റ നമുക്ക് ഈ ആംഗിൾ അളക്കാം തിരശ്ചീനമായ് ഫൈ ആംഗിൾ ഉണ്ടാക്കുന്നു അത് 29 ഡിഗ്രിയും തീറ്റ ആംഗിൾ 46 ഉം യഥാർത്ഥ നീളം 72 മില്ലീമീറ്ററുമാണ് ഇതും യഥാർത്ഥ നീളമാണ് ഇപ്പോൾ നമ്മുടെ രേഖകളുടെ പ്രൊജക്ഷൻറെ ഒരു പ്രശ്നം കൂടി പരിഹരിക്കാം അതിനാൽ നമുക്ക് സ്ലൈഡ് നോക്കാം ഇവിടെ ഉദാഹരണം 4 PQ QR എന്നീ രണ്ട് നേർരേഖകളുണ്ട് അതിനാൽ ഇത് ഒരു രേഖ മാത്രമല്ല രണ്ട് രേഖകളായ PQ QR എന്നിവയാണ് അവ തമ്മിൽ ഫ്രണ്ട് വ്യൂവിലും ടോപ് വ്യൂവിലും 120 ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത് PQ 60 മില്ലിമീറ്റർ നീളവും സമാന്തരവും തിരശ്ചീന തലം ലംബ തലം എന്നിവയിൽ നിന്ന് 15 മില്ലീമീറ്ററുമാണ് പോയിന്റ് R തിരശ്ചീന തലത്തിന് മുകളിൽ 50 മില്ലീമീറ്ററാണെങ്കിൽ PQ നും QR നും ഇടയിലുള്ള യഥാർത്ഥ ആംഗിൾ നിർണ്ണയിക്കുക അതിനാൽ P Q എന്നീ രണ്ട് രേഖകളുണ്ട് ഇവ യഥാർത്ഥ രേഖകളാണ് കൂടാതെ QR ഉം ഇതിനർത്ഥം Q വഴി കടന്നുപോകേണ്ട രേഖ ചിലപ്പോൾ R ആയിരിക്കാം അവ തമ്മിൽ 120 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു ഇവ ടോപ് വ്യൂവിൽ മുന്നിലാണ് PQ നീളം 60 മില്ലീമീറ്ററാണ് എന്ന് നമുക്കറിയാം ഇത് സമാന്തരവും HP യുടെയും VP യുടെയും മുന്നിൽ 15 മില്ലീമീറ്ററും തിരശ്ചീന തലം മുതലും ലംബ തലം മുതലും ഈ 15 മില്ലീമീറ്ററിലാണ് അങ്ങനെയാണെങ്കിൽ PQ തമ്മിലുള്ള യഥാർത്ഥ ആംഗിൾ നിർണ്ണയിക്കാൻ കഴിയും അതിനാൽ ഘട്ടം ഘട്ടമായി പ്രശ്നം പരിഹരിക്കാം ആദ്യം പ്ലെയിനിൽ ഒരു റഫറൻസ് ലൈൻ XY വരയ്ക്കുക തുടർന്ന് HP ക്ക് 15 മില്ലീമീറ്റർ മുകളിൽ p' പോയിന്റ് അടയാളപ്പെടുത്തുക അതിനാൽ ഇത് HP യെക്കാൾ 15 മില്ലിമീറ്റർ മുകളിലാണ് ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ 15 മില്ലീമീറ്റർ പ്രൊജക്റ്റ് ചെയ്യുന്നു അതിനാൽ p പോയിന്റ് 15 മില്ലീമീറ്ററിലായിരിക്കും അതുപോലെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ p പോയിന്റ് 15 മില്ലീമീറ്റർ താഴെ ആയിരിക്കും തുടർന്ന് 60 മില്ലീമീറ്റർ നീളമുള്ള രേഖകൾ p' q' കൂടാതെ XY അക്ഷത്തിന് സമാന്തരമായി p q വരയ്ക്കുക അതിനാൽ ഫ്രണ്ട് വ്യൂവിലെ പ്രൊജക്ഷനുകളും ടോപ് വ്യൂവിൽ നിന്നുള്ള പ്രൊജക്ഷനുമാണ് നമ്മൾ കാണുന്നത് അതിനാൽ p പോയിന്റിൽ നിന്ന് 60 മില്ലീമീറ്റർ നീളമുള്ള ഒരു പ്രൊജക്റ്റ് ലൈൻ p'q' വരയ്ക്കുക PQ 60 മില്ലീമീറ്റർ നീളമാണ് ഇത് ഈ XY അക്ഷത്തിന് സമാന്തരവുമാണ് കൂടാതെ തിരശ്ചീന തലം ലംബ തലം എന്നിവയിൽ നിന്നും 15 മില്ലീമീറ്റർ മാറിയും ആണ് അതിനാൽ ഒരിക്കൽ p' q p q എന്നിവ പൂർത്തിയാക്കിയാൽ അതായത് 60 മില്ലിമീറ്റർ ഉള്ള പ്രൊജക്ഷൻ പോയിന്റ് q ൽ നിന്ന് നമുക്ക് ഒരു രേഖ വരയ്ക്കണം അതിനാൽ നമ്മൾ q പോയിന്റും 120 ഡിഗ്രി രേഖയും കണ്ടെത്തി അത് ആ രീതിയിൽ വരയ്ക്കും ഇത് XY ന് മുകളിൽ 50 മില്ലീമീറ്ററിൽ തിരശ്ചീന രേഖയെ കൂട്ടിമുട്ടുന്നു അതിനാൽ 50 മില്ലീമീറ്ററിൽ ഒരു തിരശ്ചീന രേഖ വരച്ച് നമുക്ക് ഈ പോയിന്റിനെ r എന്ന് വിളിക്കാം ഒരിക്കൽ r ആ തിരശ്ചീനത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് q r എന്നിവ ബന്ധിപ്പിക്കാൻ കഴിയും q ഇതാണ് r ഇതാണ് ആ രേഖകൾ യോജിപ്പിക്കുന്നു p' r ഉം നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഇതാണ് നമ്മൾ നിർമ്മിക്കുന്ന രീതി അതിനുശേഷം നാലാമത്തേത് പോയിന്റ് q ൽ നിന്ന് ഒരു രേഖ വരയ്ക്കുക q ൽ നിന്ന് 120 ഡിഗ്രി ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉള്ള ഒരു രേഖ വരയ്ക്കുക അതിനായി 120 ഡിഗ്രി അത് പ്രൊജക്റ്റർ r നെ മുട്ടുന്നു ഇത് ഈ സ്ഥലത്തെ പ്രൊജക്ടർ ലൈനാണ് r എന്ന് വിളിക്കുന്നു തുടർന്ന് q r യോജിപ്പിക്കുക p r യോജിപ്പിക്കുക ഇത് r ആണ് തുടർന്ന് ഈ പോയിൻറ് p r യോജിപ്പിക്കുക ഈ ഘട്ടങ്ങൾ നമ്മുടെ ഷീറ്റിൽ നിർമ്മിക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു XY ലൈൻ വരയ്ക്കുക X ആക്സിസ് Y ആക്സിസ് എന്നിട്ട് പോയിന്റുകൾ അടയാളപ്പെടുത്തുക അതിനാൽ XY ന് 15 മില്ലീമീറ്റർ മുകളിലുള്ള ഒരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക ആ പോയിന്റ് p കണ്ടെത്തുക അത് ലോവർ കേസ് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു അതുപോലെ ഇതിനെക്കാൾ 15 മില്ലിമീറ്റർ താഴെ നമുക്ക് ഈ പോയിന്റിനെ p എന്ന് വിളിക്കാം തിരശ്ചീന രേഖകൾ വരയ്ക്കുക p p' എന്നിവയിൽ നിന്ന് ലോക്കസ് ലൈനുകൾ വരയ്ക്കുക ഇവ പ്രൊജക്റ്റ് ചെയ്ത രേഖകളാണ് ഇപ്പോൾ 60 മില്ലീമീറ്റർ നീളമുള്ള രേഖകൾ കണ്ടെത്തുന്നു അതിനാൽ ഇവിടെ നമുക്ക് ഈ പോയിന്റിനെ q എന്ന് വിളിക്കാം അതുപോലെ ഈ പോയിന്റ് നമ്മുടെ q ആണ് ഈ രേഖകൾ യോജിപ്പിക്കുക ഇപ്പോൾ പോയിന്റ് q XY ക്ക് 120 ഡിഗ്രിയിലാണ് അതായത് XY ലൈനിന് 50 മില്ലീമീറ്റർ ഉയരത്തിൽ ഒരു തിരശ്ചീന രേഖയിൽ ഇത് കൂട്ടിമുട്ടുന്നു അതിനാൽ ഒന്നാമതായി ഷീറ്റിൽ 50 മില്ലീമീറ്റർ രേഖ എവിടെയെങ്കിലും കണ്ടെത്താം അതിനാൽ ആ രേഖ കണ്ടെത്തുക qൽ നിന്ന് ഈ 120 ഡിഗ്രി കണ്ടെത്താം നമുക്ക് ഈ പോയിന്റിനെ r എന്ന് വിളിക്കാം r കണ്ടെത്തിക്കഴിഞ്ഞാൽ r നിർമ്മിക്കാൻ നമുക്ക് അത് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യാം നമുക്ക് q അറിയാം അവിടെനിന്ന് 120 ഡിഗ്രി ആംഗിൾ അറിയാം ഇവിടെ r ഈ രീതിയിൽ കണ്ടെത്താം തുടർന്ന് p r യോജിപ്പിക്കുക p q r ലൈനുകൾ ആ രീതിയിൽ പ്രൊജക്റ്റുചെയ്യുന്നു നമുക്ക് ഈ p r ഉം p r ഉം യോജിപ്പിക്കാം ഇപ്പോൾ നമ്മൾ r 1 r 2 കണ്ടെത്തണം ഇതിനെ 50 മില്ലീമീറ്റർ മുകളിലാണെന്ന് നമുക്ക് വിളിക്കാം നമ്മൾ r1 ഉം മറ്റ് ലൈനുകളും കണ്ടെത്താൻ പോകുന്നു ഇപ്പോൾ ഈ p q ലൈൻ വരയ്ക്കേണ്ടതുണ്ട് p q XY ന് സമാന്തരമാണ് അവ 60 മീറ്ററുള്ള p q' ൻറെ യഥാർത്ഥ നീളത്തെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ p സെന്റർ ആക്കി ഒരു ആർക്ക് വരയ്ക്കണം ഘട്ടംഘട്ടമായി സ്ലൈഡിലെ നമ്മുടെ ഉദാഹരണം 4 നോക്കാം ഈ നിർമ്മാണം പൂർത്തിയായിക്കഴിഞ്ഞാൽ ഈ ഘട്ടം 5 നോക്കുക P q p q എന്നീ രേഖകൾ XY ന് സമാന്തരമായിരിക്കുന്നതിനാൽ അവ PQ യുടെ യഥാർത്ഥ നീളത്തെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ PQ 60 മില്ലീമീറ്ററാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സെൻറർ p ഉള്ള ഒരു ആർക്ക് വരയ്ക്കണം ഈ p മുതൽ r വരെയുള്ള ദൂരം pr അതിനാൽ നമുക്ക് ഒരു പോയിന്റ് r1 കണ്ടെത്താനാകും അതിനാൽ ഈ ദിശയിൽ നമ്മൾ r1 കണ്ടെത്തുന്നു ആ പ്രോജക്റ്റിന് ശേഷം r1 കണ്ടെത്തുന്നതിന് r1 മുകളിലേക്ക് പ്രോജക്ട് ചെയ്യുന്നു തുടർന്ന് ആ രീതിയിൽ p r1 യോജിപ്പിക്കുന്നു ഇത് p r രേഖയുടെ യഥാർത്ഥ നീളത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ p q r എന്നത് വസ്തുക്കളാണ് ഒപ്പം p മുതൽ r വരെ ആ യഥാർത്ഥ നീളം നമുക്ക് ഈ രീതിയിൽ ലഭിക്കും

അതിനാൽ pr1 നമുക്ക് ഇത് 94 മില്ലീമീറ്ററായി ലഭിക്കും അത് കണക്കുകൂട്ടാം അതിനാൽ നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റിൽ ഈ p r നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു ആർക്ക് വരയ്ക്കുക ഈ പോയിന്റിനായി ഒരു പ്രൊജക്ടർ ഉണ്ട് ഇത് r 1 പ്രോജക്റ്റ് ആണ് ഇത് നമുക്ക് ഇതിനെ r1 എന്ന് വിളിക്കാം p r pr1 യോജിപ്പിക്കുക അതിനാൽ ഈ pr ഉം pr1 ഉം വരച്ചതിനുശേഷം ഈ പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ ഏഴാം പോയിൻറ്ലേക്ക് പോകും q r റേഡിയസ് സെൻറർ q എന്നിവ ഉപയോഗിച്ച് ഒരു ആർക്ക് വരയ്ക്കണം അത് r2 ൽ തിരശ്ചീന രേഖയുമായി കൂട്ടിമുട്ടും അതിനാൽ ഈ റേഡിയസ്നൊപ്പം നമ്മൾ ഈ വഴിയിലൂടെ പോകുകയാണെങ്കിൽ r2 കണ്ടെത്തും തുടർന്ന് r2' കണ്ടെത്തുന്നതിനായി ഈ r 2 പ്രൊജക്റ്റ് ചെയ്യുക അതിനാൽ നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റിൽ അത് ചെയ്യാം p r എന്നിവ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് q r റേഡിയസ് സെൻറർ q എന്നിവ ഉപയോഗിച്ച് തിരശ്ചീന അക്ഷത്തിലേക്ക് r 2 രേഖ കണ്ടെത്തുന്നതിനായി പ്രോജക്ട് ചെയ്യുന്നു r2 ലൈൻ ലഭിച്ചുകഴിഞ്ഞാൽ q r2 എന്നിവ യോജിപ്പിക്കുക അതിനാൽ ഇവിടെ ഈ രേഖ മുഴുവൻ പ്രൊജക്റ്റ് ചെയ്യണം നമ്മൾ r2 കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് q r r2 എന്നിവ യോജിപ്പിക്കുക q ഇവിടെ r2 ഇവിടെ അതിനാൽ p ൽ നിന്ന് ഇത് r ആണ് നമ്മൾ ഒരു ആർക്ക് പ്രോജക്റ്റ് എടുത്ത് അവിടെ നിന്ന് r2' രേഖയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു തുടർന്ന് q' r2' രേഖ യോജിപ്പിക്കുന്നു ഇത് q r രേഖയുടെ യഥാർത്ഥ നീളത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇത് നമ്മുടെ പോയിന്റ് Q ന്റെ യഥാർത്ഥ ദൈർഘ്യമാണ് അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഒരു യഥാർത്ഥ ത്രികോണം വരയ്ക്കും അതിനാൽ p പോയിന്റ്ൽ നിന്ന് r1 കണ്ടെത്തുന്നതിന് ഇത് കൈമാറണം അതുപോലെ r2 q1 ൽ നിന്ന് കണ്ടെത്തുക ഇവിടെ ഇന്റർസെക്ക്ട് ചെയ്യുന്ന പോയിൻറ് ഇതാണ് അതിനാൽ ഇപ്പോൾ p ൽ നിന്നുള്ള ഈ രേഖകളിൽ യോജിപ്പിക്കുക ഇതിനെ PQ ലൈനായി പുനർനാമകരണം ചെയ്യുക ഇവിടെ നിന്ന് Q മുതൽ R വരെ ക്ഷമിക്കണം ഇത് R അല്ല അതിനാൽ നമുക്ക് ഒരു QR ലൈൻ ഉണ്ട് അതിലൂടെ കടന്നുപോകുന്ന നമുക്ക് P R ലൈനും PQ ലൈനുമുണ്ട് ഇപ്പോൾ നമ്മൾ ഇത് കാണുന്നുണ്ടെങ്കിൽ Q R എന്നിവ നിർമ്മിച്ച ആംഗിൾ 113 ഡിഗ്രി ആയിരിക്കും ഈ നീളം ഈ QR ദൈർഘ്യം ഇതാണ് ആവശ്യമുള്ളത് PQ QR തമ്മിലുള്ള ഈ യഥാർത്ഥ ആംഗിൾ നമ്മൾ നിർമ്മിക്കുന്ന രീതിയാണിത് അതിനാൽ PQ QR തമ്മിലുള്ള ആംഗിൾ 113 ഡിഗ്രിയാണ് ഇവിടെ 112 ഡിഗ്രി 113 ഡിഗ്രി ഇത് നിങ്ങളുടെ ഡ്രോയിംഗ് ലൈനുകൾ കാരണമാണ് അത് വരയ്ക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് നമ്മൾ അത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒന്ന് രണ്ട് ഡിഗ്രി ആംഗിൾ എല്ലായ്പ്പോഴും വ്യത്യാസമുണ്ടാകും സ്ലൈഡിൽ നമ്മൾ ഒരു പുതിയ ആശയം പഠിക്കും അതിനെ ഒരു രേഖയുടെ ട്രെയ്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു രേഖയുടെ ഇന്റർസെക്ഷൻ പോയിന്റോ റഫറൻസ് പ്ലെയിനുകളുമായി ബന്ധപ്പെട്ട് അവയുടെ വിപുലീകരണമോ ഒരു രേഖയുടെ ട്രെയ്സുകൾ എന്ന് വിളിക്കുന്നു തിരശ്ചീന തലം ലംബ തലം എന്നിവയുള്ള ഒരു രേഖയുടെ വ്യത്യസ്ത തരം ട്രെയ്സുകൾ ഉണ്ട് നമുക്ക് തിരശ്ചീന തലം ഒരു രേഖ അല്ലെങ്കിൽ അതിന്റെ വിഭജനം ഉപയോഗിച്ച് നോക്കാം ഇത് ഒരു തിരശ്ചീന തലത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ തിരശ്ചീന തലത്തിലുള്ള ഒരു രേഖയുടെ ട്രെയ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു സാധാരണയായി നമ്മൾ അതിനെ HT ചിഹ്നത്താൽ സൂചിപ്പിക്കുന്നു ഇത് തിരശ്ചീന തലത്തിലുള്ള ഒരു പോയിന്റാണ് ഇതിനെ HP യിലെ ഒരു ബിന്ദുവിന്റെ TV എന്നും വിളിക്കുന്നു തിരശ്ചീന തലത്തിലുള്ള ഒരു പോയിന്റൻറെ ടോപ് വ്യൂ കാരണം നിങ്ങൾ തിരയുമ്പോൾ അത് ഇന്റർസെക്ക്ട് ചെയ്യുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു പേന എടുക്കാം അത് ഈ പോയിന്റിൽ തൊടാൻ പോകുന്നു അതിനാൽ ഇത് സ്പർശിക്കാൻ പോകുന്ന രേഖയാണ് അതിനാൽ ഇത് ഈ റഫറൻസ് തലം ഇന്റർസെക്ക്ട് ചെയ്യാൻ പോകുന്നു അത് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുന്നു അത് തിരശ്ചീന തലം ഇന്റർസെക്ക്ട് ചെയ്യാൻ പോകുന്നുവെങ്കിൽ അതിനെ നമ്മൾ HT പോയിന്റ് എന്ന് വിളിക്കുന്നു ഫ്രണ്ട് വ്യൂവിലേക്ക് വരുമ്പോൾ പ്രൊജക്ഷൻ XY ലൈനിലേക്ക് വരുന്നു കാരണം അത് പോയിന്റിൽ സ്പർശിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ആ XY ലൈനിന്റെ പ്രൊജക്ഷനിലേക്ക് പോകുന്നു ആ പോയിന്റിനെ നമ്മൾ സാധാരണയായി സൂചിപ്പിക്കുന്നത് h ഒരു ചെറിയ h കൊണ്ടാണ് അതുപോലെ ഒരു രേഖ ലംബ തലത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റ് ലംബ തലത്തിൽ ഒരു രേഖയുടെ ട്രെയ്സ് എന്ന് വിളിക്കുന്നു സാധാരണയായി നമ്മൾ അതിനെ VP VT എന്ന് സൂചിപ്പിക്കുന്നു ഇത് ലംബ തലത്തിലെ ഒരു പോയിന്റാണ് ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ പോയിന്റ് XY അക്ഷവുമായി ഇന്റർസെക്ക്ട് ചെയ്യുന്നു അതിനാൽ നമ്മൾ ഇത് XY അക്ഷത്തിൽ കാണും ട്രെയ്സുകളെക്കുറിച്ചും ഈ ലൈനുകളെക്കുറിച്ചും പ്ലെയിനുകൾയ്ക്ക് ഒപ്പം ഈ തിരശ്ചീന പ്ലെയിനുകൾ ലംബ പ്ലെയിനുകൾ ആയി ഇന്റർസെക്ക്ട് ചെയ്യുന്ന രീതി ഈ പ്ലെയിനുകൾ എങ്ങനെ വ്യത്യസ്ത പ്രൊജക്ഷനുകൾക്കായി കൈമാറ്റം ചെയ്യണം എന്നിവ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും അടുത്ത ക്ലാസ്സിൽ കാണാം